യൂണിറ്റ് 19 മൊഡ്യൂൾ 1 ലേക്ക് സ്വാഗതം കോഴ്സ് ഔട്ട്കംസ് കൈവരിക്കുന്നതിനെക്കുറിച്ച് നങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു മുൻ യൂണിറ്റിൽ കോഴ്സ് ഔട്ട്കംസ് എങ്ങനെ എഴുതണമെന്നും ഓരോ കോഴ്സ് ഔട്ട്കം അനുബന്ധ PO കൾ PSO കൾ കോഗ്നിറ്റീവ് ലെവൽ നോലെഡ്ജ് കാറ്റഗറീസ് അഥവാ വിജ്ഞാന വിഭാഗങ്ങൾ ആ പ്രത്യേക PO യെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ക്ലാസ്റൂം സെഷനുകളുടെ എണ്ണം എന്നിവ എങ്ങനെ ടാഗ് ചെയ്യാമെന്നും നാം മനസ്സിലാക്കി അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു ചിത്രമുണ്ട് എഴുത്തിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം ഒരു കോഴ്സിനായുള്ള CO യുടെ പൂർണ്ണമായ ചിത്രം ഈ യൂണിറ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് കോഴ്സ് ഫലങ്ങൾ കൈവരിക്കുകയും CO കൾക്ക് ചുറ്റുമുള്ള ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുകയും ചെയ്യുക എന്നതാണ് കാരണം മുഴുവൻ ഉദ്ദേശ്യവും എൻബിഎയുടെ മുഴുവൻ തത്ത്വചിന്തയും ഞങ്ങൾ വ്യാപകമായി വിശദീകരിച്ച ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുക എന്നതാണ് അതിനർത്ഥം നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യമിടുന്നു തുടർന്ന് നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുന്നു തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും നേടുന്നു നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് എത്ര അകലെയാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്യുകയും അടുത്ത തവണ കോഴ്സ് നൽകുമ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യുക വിശാലമാമായി പറഞ്ഞാൽ ഇതാണ് ക്വാളിറ്റി ലൂപ്പിന്റെ അടയ്ക്കൽ അതിനാൽ ഈ യൂണിറ്റിൽ നങ്ങൾ എങ്ങനെയാണ് ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുന്നത് എന്ന് നോക്കും ഈ മുഴുവൻ പ്രക്രിയയിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരേയൊരു മാർഗ്ഗം മാത്രമില്ലെന്ന് ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് പിന്തുടരാം എന്ന അർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പരിഹാരം അവതരിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പരിഷ്ക്കരിക്കാനും നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പരിഹാരം നിർമ്മിക്കാനും കഴിയും ഒരു കോഴ്സ് എന്താണെന്ന് ആരംഭിച്ച് ഭൂരിഭാഗം കോഴ്സുകളും ഈ വിഭാഗങ്ങളിലൊന്നിൽ പെടുന്നതിനാൽ എല്ലാ കോഴ്സുകളും ബന്ധപ്പെട്ട ക്രെഡിറ്റുകളാൽ തിരിച്ചറിയപ്പെടുന്നു ഇത് 3 0 0 ആണ് അതായത് 3 ക്ലാസ് റൂം സെഷൻ ട്യൂട്ടോറിയലും ലബോറട്ടറിയും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ക്ലാസ് റൂം സെഷനുകൾ ഉണ്ടാകാം 1 ട്യൂട്ടോറിയൽ ലബോറട്ടറി ഇല്ലായിരിക്കാം 3 0 1 എന്നാൽ 3 ക്ലാസ്റൂം സെഷനുകളും 1 ലബോറട്ടറിയും അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും 4 0 0 എന്നതിനർത്ഥം 4 ക്ലാസ് റൂം സെഷനുകളും ട്യൂട്ടോറിയലും ലബോറട്ടറിയും ഇല്ല എന്നാണ് ഒരു കോഴ്സ് ഏതൊരു കോഴ്സിന്റെയും സവിശേഷത അതിന്റെ കോഴ്സ് ഔട്ട്കംസ് ആണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അവ ഏകദേശം 6 ആണ് അതായത് 3 ക്രെഡിറ്റ് കോഴ്സിനായി നമ്മൾ 6 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 2 നെക്കുറിച്ച് സംസാരിക്കുന്നു 3 ക്രെഡിറ്റ് കോഴ്സിന് ഏകദേശം 40 ക്ലാസ് റൂം സെഷനുകൾ ഉണ്ട് ഇത് ആസൂത്രിതമായ ആഴ്ചയുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ 15 ആഴ്ച എന്ന് പറഞ്ഞേക്കാം ആ സാഹചര്യത്തിൽ അത് ചെറുതായി 45 ആയി ഉയരും അല്ലെങ്കിൽ 14 ആഴ്ചയാണെങ്കിൽ അത് 42 സെഷനുകളാകാം 3 0 0 കോഴ്സിൽ 40 ക്ലാസ് റൂം സെഷനുകൾ ആസൂത്രണം ചെയ്യുന്നത് നല്ലതാണ് 4 0 0 പോലുള്ള 4 ക്രെഡിറ്റ് കോഴ്സിന് നിങ്ങൾക്ക് ഏകദേശം 54 ക്ലാസ് റൂം സെഷനുകൾ ഉണ്ടായിരിക്കാം ഒരു കോഴ്സ് PO കൾ PSO കൾ അത് അഭിസംബോധന ചെയ്യുന്ന കോഗ്നിറ്റീവ് തലങ്ങൾ അതിന്റെ എല്ലാ CO കളുടെയും വിജ്ഞാന വിഭാഗങ്ങൾ എന്നിവയും കൂടാതെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് റൂം അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ലബോറട്ടറി സെഷനുകൾ എന്നിവയുമായി ടാഗുചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ അത് 3 0 1 കോഴ്സ് ആണ് 3 ക്ലാസ്റൂം സെഷനുകളും ആഴ്ചയിൽ 1 ലബോറട്ടറി സെഷനും അതായത് 6 കോഴ്സ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം കോഴ്സിനെ വിവരിച്ചിരിക്കുന്നു ഇത് 6 ആയിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് അവസാനത്തേത് വളരെ വലുതാണ് എനിക്ക് അതിനെ രണ്ടായി തിരിക്കാം മറ്റേ ഒരു CO4 നെ എനിക്ക് രണ്ടായി തിരിക്കാം അതിനാൽ എനിക്ക് ഇത് 7 ആക്കാം കോഴ്സിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എനിക്ക് ഇത് 8 ആക്കാൻ കഴിയും ഇവിടെ നാം പറഞ്ഞത് ഓരോ കോഴ്സ് ഫലവും നാം അഭിസംബോധന ചെയ്യുന്ന PO കളും PSO കളും ഉപയോഗിച്ച് പ്രത്യേകം ടാഗുചെയ്തിരിക്കുന്നു എന്നാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണയായി ഒരു കോഴ്സ് ഒരു PSOയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ അത് PSO1 ആണ് അതിനാൽ PSO1 അവയെല്ലാം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വ്യത്യസ്ത COകൾ ഇവിടെ വ്യത്യസ്ത POകളെ അഭിസംബോധന ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ PO3 PO4 PO5 എന്നിവയും ഉൾപ്പെടുത്താൻ നാം അൽപ്പം താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇത് അൽപ്പം അഭിലഷണീയമാണ് പക്ഷേ നിങ്ങൾക്ക് കോഴ്സ് കൂടുതൽ രസകരമാക്കാൻ കഴിയുമെന്ന് പറയാം ഇത് അധ്യാപകന് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാണ് നിങ്ങൾ ഈ പ്രോഗ്രാം ഔട്ട്കംസ് ശരിക്കും നേടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കൂടുതൽ നന്നായി പഠിക്കും അപ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് തലങ്ങളുണ്ട് ഞങ്ങൾ അതിനെ U U U എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നാം ഇതിനകം സൂചിപ്പിച്ചതുപോലെ മിക്ക കോഴ്സുകളും സാധാരണയായി അപ്ലൈ വിഭാഗത്തിന് അപ്പുറത്തേക്ക് പോകില്ല വളരെ അപൂർവ്വമായി മാത്രമേ അവർ ഇതിനപ്പുറം പോകുകയുള്ളൂ കാരണം നമ്മുടെ പരീക്ഷാ രീതികൾ ഇപ്പോഴും ഉയർന്ന കോഗ്നിറ്റീവ് തലങ്ങളെ ശരിയായി അഭിസംബോധന ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇവിടെ നാം ഉപയോഗിക്കുന്ന നോലെഡ്ജ് ക്യാറ്റഗറീസ് ഫക്ടുവൽ കോൺസെപ്റ്റുവൽ പിന്നെ പ്രോസെഡ്യൂറൽ എന്നിവയും കൂടാതെ ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് പിന്നെ പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് നോലെഡ്ജ് ക്യാറ്റഗറീകളും ചേർക്കുന്നു ഇവ ക്ലാസ് റൂം സെഷനുകളാണ് ഇവ ലബോറട്ടറി സെഷനുകളാണ് അതിനാൽ നിങ്ങൾക്ക് 14 സജീവ ആഴ്ചകളാണെങ്കിൽ നിങ്ങൾക്ക് 28 മണിക്കൂർ ലബോറട്ടറിയും ഏകദേശം 40 മണിക്കൂർ ക്ലാസ് റൂം സെഷനുകളും ഉണ്ട് ഈ പ്രത്യേക കോഴ്സ് CO കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും നടത്താൻ പോകുന്ന പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കും കോഴ്സ് എന്താണെന്ന് ഗ്രാഫിക്കലായി മനസ്സിലാക്കാൻ നിങ്ങൾ ചില ലക്ഷ്യങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട് ടാർഗെറ്റുകൾ എങ്ങനെ സജ്ജമാക്കാം എന്ന് നമ്മൾ കാണും നിങ്ങൾ കുറച്ച് ലക്ഷ്യം വെച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോഴ്സ് ഔട്ട്കംസിൻറെ അടിസ്ഥാനത്തിൽ ഒരു കോഴ്സ് നിർവചിക്കപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തൽ പാറ്റേൺ അനുസരിച്ച് കോഴ്സ് ഔട്ട്കംസ് വിലയിരുത്തപ്പെടുന്നു നാം അത് വിശദീകരിക്കും അസൈൻമെന്റുകൾ ക്വിസുകൾ ക്ലാസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അവസാന സെമസ്റ്റർ പരീക്ഷകൾ പോലുള്ള മൂല്യനിർണ്ണയ ഉപകരണങ്ങളെ ഉപയോഗിച്ച് മൂല്യനിർണ്ണയ രീതി നിർണ്ണയിക്കുന്നു ഈ മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ വിദ്യാർത്ഥികളുടെ CO അറ്റയ്ന്മെന്റ് നിർണ്ണയിക്കുന്നു എത്രത്തോളം എന്നത് ഈ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ CO അറ്റയ്ന്മെന്റ് കോഴ്സ് ഫല ലക്ഷ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ വിടവ് കണക്കാക്കുന്നു നിങ്ങൾ ലക്ഷ്യം വെക്കുന്നു അത് എത്രമാത്രം ചെയ്തുവെന്ന് നിങ്ങൾ അളക്കുകയും തുടർന്ന് നിങ്ങൾ വിടവ് അളക്കുകയും ചെയ്യുന്നു ഈ വിടവുകൾ അവ അടയ്ക്കുന്നതിനുള്ള ഒരു പദ്ധതിയിലേക്ക് നയിക്കുന്നു കാരണം ആ വിടവുകളുമായി പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അടുത്ത തവണ നിങ്ങൾ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ ഗ്യാപ് ക്ലോസ് ചെയ്യാനോ ഗ്യാപ് കുറയ്ക്കാനോ ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിടവ് 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലക്ഷ്യം കവിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾ ലക്ഷ്യം ഉയർത്തും അങ്ങനെയാണ് ലൂപ്പ് അടയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സംവിധാനം കോഴ്സുകളാണ് പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങൾ അതിനാൽ നമ്മൾ കോഴ്സിലൂടെ പ്രവർത്തിക്കുന്നു CO നേട്ടങ്ങളിൽ നിന്ന് PO PSO നേട്ടവും നാം പിന്നീട് നിർണ്ണയിക്കും അങ്ങനെയാണ് CO കളും PO കളും തമ്മിലുള്ള ബന്ധം അതിനാൽ നിലവിൽ ഈ പ്രത്യേക മൊഡ്യൂളിലോ ഈ പ്രത്യേക യൂണിറ്റിലോ നാം ലൂപ്പിന്റെ ഈ ഭാഗം നോക്കും ഇപ്പോൾ നാം NBA സൂചിപ്പിച്ച നടപടിക്രമങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുന്നു ഇപ്പോൾ CO യുടെ നേട്ടം നേരിട്ടും അല്ലാതെയും അളക്കാനാകും പ്രസക്തമായ എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലും ഉള്ള വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളിൽ നിന്ന് CO യുടെ നേരിട്ടുള്ള അറ്റയ്ന്മെന്റ് നിർണ്ണയിക്കാനാകും നമ്മൾ നിശ്ചയിച്ച വിവിധ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിൽ അവൻ നേടിയ മാർക്കുകൾ അല്ലെങ്കിൽ ഗ്രേഡുകൾ പോലെ അതിൽ ക്ലാസ് ടെസ്റ്റുകളും അവസാന സെമസ്റ്റർ പരീക്ഷകളും ഉൾപ്പെടും CO യുടെ പരോക്ഷമായ നേട്ടം CO കൈവരിക്കുന്നതുവരെ NBA അനുസരിച്ച് ഇത് ഓപ്ഷണലാണ് കോഴ്സ് എക്സിറ്റ് സർവേകളിൽ നിന്ന് അവ നിർണ്ണയിക്കാനാകും അതായത് സെമസ്റ്റർ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് എക്സിറ്റ് സർവേ നടത്തുന്നു എന്നാൽ ഈ കോഴ്സ് എക്സിറ്റ് സർവേ ഇൻസ്ട്രക്ടറെക്കുറിച്ചല്ല അയാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയത് എന്നതിനെ കുറിച്ചാണ് കോഴ്സ് എക്സിറ്റ് സർവേ കോഴ്സ് ഔട്ട്കംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം നേടി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കംസ് പഠിക്കുകയോ ചെയ്തു വിദ്യാർത്ഥി എത്രത്തോളം പഠിച്ചുവെന്നോ കോഴ്സ് ഔട്ട്കംസ് കൈവരിച്ചുവെന്നോ നിങ്ങൾ പരോക്ഷമായി ചോദിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒരു ഫോം രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ CO6 എത്രത്തോളം പഠിച്ചുവെന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല പക്ഷേ അതിനാൽ ഈ കോഴ്സ് എക്സിറ്റ് സർവേ ഫോമുകൾ വിഷയം നിർദ്ദിഷ്ടമോ കോഴ്സ് നിർദ്ദിഷ്ടമോ ആയിത്തീരുന്നു അവ അതനുസരിച്ച് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് സർവേ ഫോം കാരണം ഇപ്പോൾ എന്ത് സംഭവിച്ചാലും CO യുടെ പരോക്ഷമായ നേട്ടത്തിന്റെ കണക്കുകൂട്ടൽ സങ്കീർണ്ണമായി മാറും അതിനാൽ അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ സംബന്ധിച്ച് ഒരാൾക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ പരിഗണിക്കുമ്പോൾ പരോക്ഷമായ നേട്ടത്തിനായി നിങ്ങൾ കുറച്ച് വെയിറ്റേജ് മാത്രം നൽകുന്നു ഇപ്പോൾ നമുക്ക് ടയർ 2 ടയർ 1 കോളേജുകൾ തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ടയർ 2 കോളേജുകളിൽ സെമസ്റ്റർ എൻഡ് പരീക്ഷ സർവകലാശാല നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്നു കോളേജിനോ ഇൻസ്ട്രക്ടർക്കോ അതിൽ നേരിട്ട് പങ്കില്ല കോളേജിന് തുടർച്ചയായ ആന്തരിക മൂല്യനിർണ്ണയത്തിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കൂടാതെ ടെസ്റ്റുകളും മൂല്യനിർണ്ണയവും കോളേജോ ഇൻസ്റ്റിറ്റ്യൂട്ടറോ നടത്തുന്നു ഈ പരിധിവരെ രാജ്യത്തുടനീളമുള്ള ടയർ 2 കോളേജിലെ നിലവിലെ രീതികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ 2080 മുതൽ 3070 വരെ എവിടെയും ഉണ്ടാകാം 2080 എന്നാൽ 20 തുടർച്ചയായ ആന്തരിക മൂല്യനിർണ്ണയത്തിനും 80 സെമസ്റ്റർ അവസാന പരീക്ഷയ്ക്കും വെയിറ്റേജ് നൽകുന്നു കൂടാതെ CIE യ്ക്ക് ഉപയോഗിക്കുന്ന അതായതു കണ്ടിന്യൂസ് ഇന്റെർണൽ ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ എണ്ണം അത് കോളേജ് തീരുമാനിക്കും ചിലപ്പോൾ സർവകലാശാല നിങ്ങൾക്ക് എത്ര ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നത് പോലും വ്യക്തമാക്കുന്നു ടെസ്റ്റുകൾ കേന്ദ്രീകൃതമായി രൂപകൽപ്പന ചെയ്ത് കോളേജിലേക്ക് അയയ്ക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതിനാൽ ഇത് പ്രായോഗികമായി SEE പോലെയാണ് ഇതിനർത്ഥം സർവകലാശാല ആന്തരിക പരിശോധനകൾ സജ്ജമാക്കും അതുപോലെ തന്നെ പ്രാദേശികമായി മാത്രം കാര്യങ്ങൾ ശരിയാക്കും അങ്ങനെ ചെയ്യുന്നത് അഭികാമ്യമല്ലെങ്കിലും ചില സർവകലാശാലകൾക്ക് അത്തരം രീതികളുണ്ട് അതിനാൽ സംഭവിക്കുന്നത് മൂല്യനിർണ്ണയ ഇനങ്ങളിലേക്ക് വകുപ്പിന് പ്രാപ്യമല്ല എന്നതാണ് അല്ലെങ്കിൽ ഓരോ മൂല്യനിർണ്ണയ ഇനത്തിനും വിദ്യാർത്ഥിക്ക് SEE ൽ ലഭിച്ച മാർക്കുകൾ കോളേജിൽ പ്രാപ്യമാക്കാൻ കഴിയില്ല പൊതുവെ സർവകലാശാല അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒരു മാർക്കോ ഒരു ഗ്രേഡോ മാത്രമേ നൽകൂ ഒരു മാർക്കോ ഒരു ഗ്രേഡോ മാത്രമേ നൽകൂ കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകില്ല കുറഞ്ഞത് അതാണ് ഇപ്പോഴത്തെ രീതി അതിനാൽ ടയർ 2 കോളേജിൽ CIE യിലെ അസസ്മെന്റ് ഇൻസ്ട്രുമെന്റുകളിൽ ഇനത്തിനനുസരിച്ചുള്ള മാർക്കുകൾ മാത്രമേ കോളേജിന് ലഭിക്കൂ നിങ്ങളുടെ സ്വന്തം ക്ലാസ് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇനം തിരിച്ചുള്ള മാർക്കുകൾ ലഭ്യമാണ് ടയർ 1 കോളേജിൽ അവസാന സെമസ്റ്റർ പരീക്ഷയും കണ്ടിന്യൂസ് ഇന്റെർണൽ ഇവാലുവേഷൻ എന്നിവ ടയർ 1 കോളേജ് നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്നു CIE SEE വെയിറ്റേജുകൾ 4060 അല്ലെങ്കിൽ 5050 എന്നത് തികച്ചും സാധാരണ രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ചോയ്സ് ഉണ്ട് CIE യ്ക്ക് ഉപയോഗിക്കുന്ന മൂല്യനിർണയ ഉപകരണങ്ങളുടെ എണ്ണം ചില ഉന്നത സ്ഥാപനങ്ങളിലെ ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക കോളേജിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഉണ്ടായിരിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ മൂല്യനിർണ്ണയ ഇനങ്ങളും എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലും എല്ലാ കോഴ്സുകളിലെയും എല്ലാ വിദ്യാർത്ഥികളും നേടിയ എല്ലാ മാർക്കുകളിലേക്കും വകുപ്പിന് പ്രാപ്യമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ ഡാറ്റയുണ്ട് അതിൽ നിന്ന് ടയർ 2 കോളേജ് എന്ന് നിങ്ങൾ വിളിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരാൾക്ക് CO അറ്റയ്ന്മെന്റ് വളരെ മികച്ച രീതിയിൽ കണക്കാക്കാം എല്ലാ മൂല്യനിർണ്ണയ ഇനങ്ങളിലും ഈ മൂല്യനിർണ്ണയ ഇനങ്ങളിൽ 1 മാർക്ക് ചോദ്യങ്ങൾ 2 മാർക്ക് ചോദ്യങ്ങൾ 5 മാർക്ക് ചോദ്യങ്ങൾ 10 മാർക്ക് ചോദ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടാം ഓരോ മൂല്യനിർണ്ണയ ഇനവും കോഗ്നിറ്റീവ് ലെവൽ കോഴ്സ് ഔട്ട്കം മാർക്ക് എന്നിവ ഉപയോഗിച്ച് ടാഗ് ചെയ്യപ്പെടും ഏറ്റവും കുറഞ്ഞ മൂന്ന് ആവശ്യകതകൾ ഇവയാണ് ആസൂത്രണ നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾക്ക് PO PSO വിജ്ഞാന വിഭാഗങ്ങൾ എന്നിവയേക്കാൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ താൽപ്പര്യപ്പെട്ടേക്കാം എന്നാൽ കണക്കുകൂട്ടൽ സംബന്ധിച്ച് ഈ മൂന്നും മതിയാകും ടയർ 2 സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ CIE യുമായി ബന്ധപ്പെട്ട മൂല്യനിർണയ ഇനങ്ങൾ ടാഗ് ചെയ്യാൻ മാത്രമേ കഴിയൂ ഇപ്പോൾ നമ്മൾ അസ്സെസ്സ്മെന്റ് പാറ്റേണിനെക്കുറിച്ച് സംസാരിക്കുന്നു അസ്സെസ്സ്മെന്റ് പാറ്റേൺ എന്ന് നാം എന്തിനെയാണ് വിളിക്കുന്നത് അടിസ്ഥാനപരമായി അസ്സെസ്സ്മെന്റ് ഇൻസ്ട്രുമെന്റസ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ അവ എത്രയുണ്ടെന്നും അവയിൽ ഓരോന്നിനും നിങ്ങൾ എത്ര വെയിറ്റേജ് നൽകുന്നുവെന്നും പറയുന്നു ഒരു ടയർ 2 കോളേജിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ നമുക്ക് പറയാം ഞാൻ ഒരു അസൈൻമെന്റ് നൽകുന്നു അത് 5 മാർക്ക് നൽകുന്നു എന്നാൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 അസൈൻമെന്റുകളും ഉണ്ടായിരിക്കാം കൂടാതെ എല്ലാ അസൈൻമെന്റുകളുമായി ബന്ധപ്പെട്ട മൊത്തം മാർക്കുകളും 5 ആകാം ഞങ്ങളുടെ പക്കലുള്ള 25 ൽ 5 മാർക്കുകൾ അസൈൻമെന്റുകൾക്ക് നിയോഗിക്കുകയോ നൽകുകയോ ചെയ്യുന്നു ടെസ്റ്റ് 1 ന് 10 മാർക്കും ടെസ്റ്റ് 2 ന് 10 മാർക്കും ഉണ്ട് നാം അതിനെ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് ഇത് വീണ്ടും പരിശീലകന്റെ തിരഞ്ഞെടുപ്പാണ് അത് വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ടെസ്റ്റ് 1 നുള്ള എന്റെ വെയിറ്റേജ് 'റിമെംബേർ ' തരം ചോദ്യങ്ങൾ ഞാൻ 10 ൽ 2 ഉം അണ്ടർസ്റ്റാൻഡ് 6 മാർക്ക് ചോദ്യങ്ങളും അപ്ലൈ 2 ഉം ആകാം അതുപോലെ ഞാൻ ടെസ്റ്റ് 2ന് ആ വെയിറ്റേജ് മാറ്റിയേക്കാം നമ്മൾ പറഞ്ഞതുപോലെ ഈ വിതരണം പൂർണമായും അധ്യാപകനെയും വിഷയത്തിന്റെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു അസൈൻമെന്റ് വലിയതോതിൽ പ്രശ്ന പരിഹാര വ്യായാമങ്ങൾ ആയതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം നൽകുന്ന 5 മാർക്കുകളും അപ്ലൈ ആണ് ഇതാണ് മൂല്യനിർണ്ണയ രീതി ഇപ്പോൾ ടയർ 1 കോളേജിൽ ഞാൻ CIE നായി 40 വെയിറ്റേജ് എടുക്കുന്നു അവ വിതരണം ചെയ്യുന്നു ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മാതൃക പിന്തുടരാനാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10 മാർക്കിന് 1 ടെസ്റ്റും 20 മാർക്കിന് 2 ടെസ്റ്റും നടത്താം അത് മറ്റൊരു സാധ്യതയാണ് അതിനാൽ ഇത് ഒരു സാമ്പിളാണ് രണ്ട് അസൈൻമെന്റുകളും രണ്ട് ടെസ്റ്റുകളും ഉണ്ട് കൂടാതെ വിവിധ കോഗ്നിറ്റീവ് ലെവലുകൾക്ക് നൽകിയിട്ടുള്ള വെയിറ്റേജ് സൂചിപ്പിക്കുന്നത് പോലെയാണ് നാം പറഞ്ഞതുപോലെ ഇവ സാമ്പിൾ മൂല്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻഗണനകളും നിങ്ങളുടെ കോഴ്സും അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് ശരാശരി കണക്കാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശമുള്ള ഓരോ മൂല്യനിർണ്ണയ ഉപകരണവും ആദ്യത്തേത് എടുക്കുക അസൈൻമെന്റ് 1 എന്ന് പറയുക 5 മാർക്കുകൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ അസൈൻമെന്റുകൾ ഈ കോഴ്സ് ഫലങ്ങളിൽ ഏതിലും നൽകാവുന്നതാണ് അതിനാൽ എനിക്ക് CO2 ന് 2 മാർക്കും CO3 ന് 1 മാർക്കും CO4 ന് 2 മാർക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് 2 മാർക്കിൽ ഞാൻ ക്ലാസ് ശരാശരി നോക്കിയാൽ അത് 1 CO3 അസൈൻമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1 ൽ 0 7 ഉം CO4 2 ൽ 1 7 ഉം ആണ് ടെസ്റ്റ് 1 ലേക്ക് വരുന്നത് 10 മാർക്കുകൾ CO1 CO2 CO3 കൾക്കായി 4 3 3 എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ക്ലാസിന്റെ ശരാശരി 4 മാർക്കുകളിൽ 2 3 ആണ് 3 മാർക്കുകളിൽ 2 1 ഉം ആണ് അല്ലെങ്കിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ടാർഗെറ്റുകളെ ആശ്രയിച്ച് ഇവ വ്യത്യാസപ്പെടാം നിങ്ങൾ എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ 3 മാർക്കിൽ ക്ലാസ് ശരാശരി 2 3 ആണ് അതിനാൽ ഈ ടെസ്റ്റ് 2 നും തുടർന്ന് CIE ക്ലാസ് ശരാശരി ഇതുപോലെ കണക്കുകൂട്ടുന്നു CO1 ന് അവർ നേടിയ എല്ലാ മാർക്കും നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും പരമാവധി മാർക്ക് എത്രയാണ് നിങ്ങൾ ശതമാനം കണക്കാക്കുകയും ചെയ്യുന്നു അതേസമയം നിങ്ങൾ ടയർ 1 കോളേജിൽ വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മൂല്യനിർണയ ഉപകരണങ്ങൾ ഉണ്ട് മാർക്കുകൾ വ്യത്യസ്തമാണ് നിങ്ങൾ ക്ലാസ് ശരാശരിയെ സമാനമായ രീതിയിൽ കണക്കാക്കുന്നു അതിനാൽ ഓരോ CO യ്ക്കും CIE യ്ക്ക് ക്ലാസ് ശരാശരി ശതമാനം നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കും അറ്റയ്ന്മെന്റ് ടാർഗെറ്റ്സ് അഥവാ കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു നിങ്ങൾ എത്രത്തോളം കൈവരിക്കണം അത് വീണ്ടും ആത്മനിഷ്ഠമാണ് ഞങ്ങൾ നിങ്ങൾക്ക് നാല് ഉദാഹരണങ്ങൾ നൽകും ഒരു കോഴ്സിന്റെ എല്ലാ CO കൾക്കും നിങ്ങൾ ഒരേ ലക്ഷ്യം വെക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എല്ലാ CO കൾക്കും ഒരുമിച്ച് ചേർക്കുന്ന ക്ലാസ് ശരാശരി മാർക്ക് 60 മാർക്കിനേക്കാൾ കൂടുതലോ തുല്യമോ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അത് അളക്കാനുള്ള വളരെ സ്ഥൂലമായ മാർഗമാണ് ഉദാഹരണം 2 ടാർഗെറ്റുകൾ എല്ലാ CO കൾക്കും ഒരുപോലെയാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ ഗ്രൂപ്പുകളുടെ പ്രകടന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു ഉദാഹരണത്തിന് മുഴുവൻ മൂല്യനിർണ്ണയത്തിലും 50 മാർക്കിൽ കുറവുള്ള 10 വിദ്യാർത്ഥികൾ എനിക്ക് ഉണ്ടായിരിക്കണം അതായത് SEE CIE എന്നിവയുൾപ്പെടെ 50 ൽ താഴെ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ശതമാനം 10കവിയാൻ പാടില്ല അതുപോലെ 50 നും 65 നും ഇടയിൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾ 40ൽ കൂടുതൽ ആയിരിക്കണം അതുപോലെ 65 മുതൽ 80 നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 30 വരെയും 80 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വിദ്യാർത്ഥികളുടെ ശതമാനം കുറഞ്ഞത് 10 ആയിരിക്കണം അതിനർത്ഥം നിങ്ങൾ ക്ലാസ് ശരാശരിയാണ് നോക്കുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളാണ് ഏത് ക്ലാസിലും നിങ്ങൾക്ക് വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത പ്രചോദനങ്ങളുമുള്ള വിദ്യാർത്ഥികളുണ്ടെന്ന ഒരു ന്യായീകരണമുണ്ട് ഇതിന് അതിനാൽ എല്ലാവർക്കും ഏകദേശം ഒരേ തരത്തിലുള്ള മാർക്കുകൾ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല നിങ്ങൾക്ക് ഇപ്പോഴും സങ്കീർണ്ണമായ മറ്റൊരു കാര്യമുണ്ട് ഉദാഹരണം 2 ന് വളരെ സമാനമാണ് മുമ്പത്തേത് എന്നാൽ ഇപ്പോൾ ഞാൻ ഓരോ CO നും ഈ ശതമാനം നിശ്ചയിച്ചു അതുകൊണ്ട് ഇതുപോലുള്ള വളരെ വിപുലമായ ഒരു പട്ടിക ഞാൻ വെച്ചു ഇതിന് ഒരു നിശ്ചിത നേട്ടമുണ്ട് ഉദാഹരണത്തിന് എനിക്ക് മാർക്ക് വളരെ കുറവുള്ള വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവയിലേക്കോ കൂടുതൽ ഇൻപുട്ടുകളിലോ എന്തെങ്കിലും പ്രവർത്തനം ആസൂത്രണം ചെയ്യാനോ കഴിയും എന്നാൽ ഇത് ധാരാളം ഡാറ്റയാണ് ധാരാളം കണക്കുകൂട്ടലുകൾ നടത്തേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപകരണം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും തുടർന്ന് ഇത് നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോൾ മുമ്പത്തേതിനേക്കാൾ സങ്കീർണ്ണത കുറഞ്ഞ ഒരു കേസ് ആണ് ഉള്ളത് ഒരാൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് ഒരു കോഴ്സിന്റെ ഓരോ CO യ്ക്കും പ്രത്യേകമായി ടാർഗെറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഓരോ CO നും ക്ലാസ് ശരാശരി 70 ആയിരിക്കണം ഇവിടെ ഉദാഹരണത്തിന് CO1 70ആയിരിക്കണം അതായത് CO1 ന് 70 ക്ലാസ് ശരാശരി മാർക്ക് നേടാൻ ഞാൻ ലക്ഷ്യമിടുന്നു അതായത് CIE SEE എന്നിവയിൽ CO1 മായി ബന്ധപ്പെട്ട എല്ലാ മൂല്യനിർണ്ണയ ഇനങ്ങളും മാർക്ക് ശതമാനം 70 ആയിരിക്കണം അതിനാൽ വിദ്യാർത്ഥിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ഓരോ CO യെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട അധിക പ്രവർത്തനം സംബന്ധിച്ച് നിങ്ങൾക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാനാകും ഇവിടെ ഞങ്ങളുടെ അവതരണത്തിനായി ഞങ്ങൾ ഈ പ്രത്യേക ലക്ഷ്യം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ ഉദാഹരണം 4 ആയിരിക്കും കണക്കുകൂട്ടലിന് അടിസ്ഥാനം ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും ടയർ 2 കോളേജിന് ഏതെങ്കിലും പ്രത്യേക കോഴ്സിൽ CO യുടെ നേട്ടം നിങ്ങൾ അതിനെ Cxxx എന്ന് വിളിക്കുക നിങ്ങൾ 0 25 കണക്കുകൂട്ടുക അതായത് CIE ന് 25 വെയിറ്റേജും SEE ന് 75 അങ്ങനെ നിങ്ങൾ കണക്കുകൂട്ടുന്നു ഇതിനർത്ഥം ഞാൻ മുമ്പത്തെ പട്ടികയിലെ CIE യ്ക്കുള്ള ക്ലാസ് ശരാശരിയെ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് എന്നാൽ SEE ലേക്ക് വരുമ്പോൾ ഓരോ CO യ്ക്കും എനിക്ക് വ്യക്തിഗത മൂല്യങ്ങളില്ല യൂണിവേഴ്സിറ്റി എനിക്ക് ആ മാർക്കുകൾ നൽകാൻ പോകുന്നില്ല അവർ എനിക്ക് ഒരു ക്ലാസ് ശരാശരി നൽകുന്നു മറ്റെന്തെങ്കിലും വേണമെങ്കിൽ എല്ലാ CO കളും ഒരേ അളവിൽ കൈവരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഞാൻ അതേ ശതമാനം ഉപയോഗിക്കുന്നു ഈ രണ്ട് 25 ഉം 75 ഉം സംയോജിപ്പിച്ച് നേരിട്ടുള്ള CO കൈവരിക്കൽ കണക്കാക്കുന്നു ഇപ്പോൾ ടയർ 1 കോളേജിലാണ് നിങ്ങൾക്ക് എല്ലാ മാർക്കുകളിലേക്കും പ്രവേശനമുള്ളത് അതിനാൽ SEE ക്ലാസ് ശരാശരി എനിക്ക് വ്യക്തിഗത മൂല്യങ്ങളുണ്ട് എനിക്ക് ഇതുപോലെ സംയോജിപ്പിക്കാൻ കഴിയും ശരി CIE ശരാശരി SEE ശരാശരി രണ്ടും എന്റെ പക്കലുണ്ട് ഞാൻ രണ്ടും കൂടി 40 60 എന്നിവ നൽകി ഒടുവിൽ ക്ലാസ് ശരാശരി കണക്കാക്കുന്നു ഇപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കാരണം ഡയറക്റ്റ് CO അറ്റയ്ന്മെന്റ് ഇൻഡയറക്റ്റ് CO അറ്റയ്ന്മെന്റ് എന്നിവ കാണാൻ നാം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഡയറക്റ്റ് CO അറ്റയ്ന്മെന്റ് നോക്കുകയാണെങ്കിൽ CO അറ്റയ്ന്മെന്റ് ആദ്യ നിരയാണ് അവിടെ നിങ്ങൾക്ക് ശതമാനം കാണിച്ചിരിക്കുന്നു അതായത് 25 75 എന്നിവ സംയോജിപ്പിച്ച് നിങ്ങൾക്ക് ആ നിരയുണ്ട് പിന്നെ ഇൻഡയറക്റ്റ് CO അറ്റയ്ന്മെന്റ് ഇതിൽ എക്സിറ്റ് സർവേകളുടെ അടിസ്ഥാനത്തിൽ COs എത്രത്തോളം കൈവരിക്കുമെന്ന് നിങ്ങൾ കണക്കുകൂട്ടുന്നു നിങ്ങൾ ഈ രണ്ടും അതായത് ഡയറക്റ്റ് അറ്റയ്ന്മെന്റ് 90 ഉം ഇൻഡയറക്റ്റ് അറ്റയ്ന്മെന്റ് 10 ഉം കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾക്ക് 62 3 67 8 തുടങ്ങിയവ കാണിക്കുന്ന മൂന്നാമത്തെ നിരയുണ്ട് അവർ നിങ്ങൾക്ക് CO അറ്റയ്ന്മെന്റ് നൽകുകയും നിങ്ങൾ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു ടാർഗെറ്റുകൾ ഇവ ഇതിനകം തിരഞ്ഞെടുത്തിട്ടുണ്ട് തുടർന്ന് നിങ്ങൾ CO കൈവരിക്കാനുള്ള വിടവ് കണക്കാക്കുന്നു ശരി അതിനാൽ നിങ്ങൾ ലക്ഷ്യം കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് CO1 ൽ നമുക്ക് CO അറ്റയ്ന്മെന്റ് ശതമാനം 62 3 ലഭിച്ചു പക്ഷേ ലക്ഷ്യം അത് ആദ്യം തന്നെ നമ്മൾ 60 ആക്കി നിശ്ചയിച്ചിരുന്നു അത് നിങ്ങൾക്ക് 2 3 നൽകുന്നു അതിനർത്ഥം നിങ്ങൾ ലക്ഷ്യം കവിഞ്ഞു എന്നാണ് നിങ്ങൾ ലക്ഷ്യം കവിയുമ്പോൾ നിങ്ങൾ എന്തുചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം കൈവരിക്കുന്നു അടുത്ത തവണ നിങ്ങൾ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഉയർത്തും അതായത് 60 ന് പകരം എനിക്ക് അത് 65 ആക്കാം നിങ്ങളുടെ മുഴുവൻ ക്ലാസ്സിനെയും ഉയർന്ന CO കൾ നേടുന്നതിനായി പരിശ്രമിപ്പിക്കാം ടയർ 1 കോളേജിന്റെ കാര്യവും ഇതുതന്നെ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു അതിനായി നിങ്ങൾ ടാർഗെറ്റ് ലെവലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശരി ടയർ 1 കോളേജിന് സമാന കണക്കുകൂട്ടലുകൾ നടത്തുന്നു ഇപ്പോൾ നാം ടയർ 2 കോളേജിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കാണിക്കുന്നത് എന്തു ചെയ്യണം ഞങ്ങൾ അവിടെ കാണിച്ചതുപോലെ ഞങ്ങൾ ലക്ഷ്യം നേടി ഞങ്ങൾ കാണിച്ച വിടവും പിന്നെ വിടവ് നികത്താൻ നിർദ്ദേശിച്ച ഒരു പ്രവർത്തനവും നിങ്ങൾ ആസൂത്രണം ചെയ്യണം ഉദാഹരണത്തിന് ഇത് 2 3 ആയതിനാൽ ലക്ഷ്യത്തിന്റെ പരിഷ്ക്കരണം നേടിയതിനാൽ നിങ്ങൾ ലക്ഷ്യം 65 ആയി വർദ്ധിപ്പിക്കും CO2 ന്റെ കാര്യത്തിൽ 7 3 വിടവ് ഉണ്ട് അതിനർത്ഥം മെച്ചപ്പെടുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെന്നാണ് കൂടാതെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തന്റെ ക്ലാസ്റൂം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴ്സ് വാഗ്ദാനം ചെയ്ത അധ്യാപകൻ പൂർണ്ണമായി മനസ്സിലാക്കും ഇവിടെ ഞങ്ങൾ കൃത്യമായതിനേക്കാൾ സൂചക സാമ്പിളുകൾ നൽകി ഇത് നിർദ്ദിഷ്ട സാമ്പിൾ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഉദാഹരണത്തിന് മാക്രോ മോഡലിംഗിന്റെ ആവശ്യകതയും BJT കളുടെയും FET കളുടെയും മാതൃകകൾ വിശദമായി വിവരിക്കാൻ നമ്മൾ പറഞ്ഞു കാരണം നാം പറഞ്ഞതുപോലെ ഈ കണക്കുകൂട്ടലുകൾക്കെല്ലാം അടിസ്ഥാനമായി നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിനെക്കുറിച്ച് ഒരു കോഴ്സ് എടുക്കുന്നു അതിനാൽ ഈ കോഴ്സുകളുടെ കാര്യത്തിൽ ഈ പരിഹാരങ്ങളും നൽകുന്നു നിലവിൽ ലഭ്യമായ വാണിജ്യ ഉപകരണത്തിന്റെ പരാമീറ്ററുകൾ അവതരിപ്പിക്കുക കൂടാതെ CO3 ന് 3 1 വിടവുണ്ട് ഫീഡ്ബാക്ക് സിസ്റ്റങ്ങളുടെ ക്ഷണികമായ പെരുമാറ്റത്തിന്റെ ആവൃത്തി ആശ്രയത്വത്തിന്റെ കൂടുതൽ സിമുലേഷനുകൾ അവതരിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ഓരോന്നിനും അത് പോലെ CO5 ന് 18 അതിനർത്ഥം ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഒന്നുകിൽ നമ്മളുടെ അവതരണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ സംഘടിപ്പിച്ച രീതി അല്ലെങ്കിൽ ലബോറട്ടറി സെഷനുകൾ നടത്തിയത് എന്തായാലും ശരി ഗുരുതരമായ വിടവ് ഉണ്ട് അതിനാൽ ഗണിത മാതൃകകളും പാക്കേജ് ഗ്രാഫും ഉപയോഗിച്ച് പാരാമീറ്റർ വ്യതിയാനങ്ങളുടെ ഫലം പ്രകടമാക്കാൻ നാം പറയുന്നു അതിനാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടുത്ത സെമസ്റ്ററിൽ അല്ലെങ്കിൽ അടുത്ത വർഷം കോഴ്സ് നടത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പിന്നീട് തെളിയിക്കേണ്ടതുണ്ട് ശരി ഇപ്പോൾ നാം അസൈൻമെന്റുകളിലേക്ക് വരുന്നു നിങ്ങൾ ഇതിനകം കോഴ്സ് ഫലങ്ങൾ രൂപകൽപ്പന ചെയ്ത അവയെല്ലാം ടാഗുചെയ്ത മുൻ യൂണിറ്റുകളിൽ നിങ്ങൾ ഇതിനകം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ CO അറ്റയ്ന്മെന്റ് ലക്ഷ്യങ്ങൾ സജ്ജമാക്കി CO അറ്റയ്ന്മെന്റ് കണക്കുകൂട്ടുകയും കോഴ്സിനായുള്ള പഠന മെച്ചപ്പെടുത്തലിനായി ആസൂത്രണം ചെയ്യുകയും ചെയ്യണം എക്സർസൈസ്നായി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന എല്ലാ ഡാറ്റയും ഇല്ലെങ്കിൽ ചില സാങ്കൽപ്പികവും എന്നാൽ ന്യായമായതുമായ സംഖ്യകൾ ഉപയോഗിക്കുകയും അസൈൻമെന്റ് പൂർത്തിയാക്കുകയും ചെയ്യുക നിങ്ങൾ സ്വയം ചെയ്തുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നൽകും അല്ലെങ്കിൽ CO കൈവരിക്കാനുള്ള കണക്കുകൂട്ടലിന്റെ പങ്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇനിപ്പറയുന്ന മൊഡ്യൂളിലോ താഴെ പറയുന്ന യൂണിറ്റ് 20 ലോ ഞങ്ങൾ PO കളുടെയും PSO കളുടെയും നേട്ടങ്ങൾ കണക്കാക്കുകയും PO കൾക്കും PSO കൾക്കും ചുറ്റുമുള്ള ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുകയും ചെയ്യും നിങ്ങൾ CO അറ്റയ്ന്മെന്റ് കണക്കാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് PO അറ്റയ്ന്മെന്റ്ലേക്ക് നീങ്ങാൻ കഴിയില്ല U20 എന്ന അടുത്ത യൂണിറ്റിൽ നാം ചെയ്യാൻ പോകുന്നത് അതാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി